ഒരു ലീനിയർ സിസ്റ്റത്തിന്റെ ഫോർസ്ഡ് റെസ്പോൺസ് കണ്ടെത്തുന്ന കാര്യത്തിൽ എടുത്തു പറഞ്ഞാൽ ഒരു സിനുസോയ്ഡൽ സിഗ്നൽ ഇൻപുട്ട് ആയി വരുന്ന ഒരു ഫസ്റ്റ് ഓർഡർ RC സർക്യൂട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് cos ωt 5 എന്ന് പ്രതിനിധീകരിക്കാം ഇതിന്റെ ഫ്രീക്വൻസി ω ആംപ്ലിറ്റിയൂഡ് Vp എന്നിരിക്കട്ടെ ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന പൊതുവായ രൂപമാണ് ഇൻപുട്ട് sin ωt ആണ് അതിന് ഇപ്പോഴും Vpcos ωt 5 2 ഉണ്ട് കുറുക്കുവഴികൾ ധാരാളം ഉണ്ടെന്ന് ഞങ്ങൾ കാണും ഞങ്ങൾ ഈ സ്റ്റെപ്പുകളിലൂടെ ഒക്കെ കടന്നുപോകില്ല അവിടെ എക്സ്പോണൻഷ്യൽ ഇട്ടു എന്നിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തു അതിനാൽ പൊതുവെ നമ്മൾ ഒരു RC സർക്യൂട്ടിന്റെ ഉദാഹരണമെടുത്തിട്ടുണ്ടെങ്കിൽ റിയൽ കോയിഫിഷന്റ് ഉള്ള ഒരു ലീനിയർ സിസ്റ്റം വാസ്തവിക ഗുണകങ്ങളുള്ള ഒരു രേഖീയ സംവിധാനം നിങ്ങൾക്ക് കുറച്ച് ഔട്ട്പുട്ട് ലഭിക്കും ഞാൻ അതിനെ Vp cos ω t 5 എന്നതിനുള്ള റെസ്പോൺസ് എന്ന് വിളിക്കുന്നു ഞാൻ ഇവിടെ Vpsine ωt5 ആയിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ലഭിക്കുമായിരുന്നു ഈ പഠനത്തിന്റെ ഫോർസ്ഡ് റെസ്പോൺസിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് Vp sin ω t 5 യുടെ സ്റ്റെഡി സ്റ്റേറ്റ് ഫോർസ്ഡ് റെസ്പോൺസ് ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനാകുന്നത് ഈ ഇൻപുട്ടിനെ 1 കൊണ്ടും മറ്റേതിനെ j കൊണ്ടും അതായതു j √ 1 അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ ഇൻപുട്ട് Vp എക്സ്പോണൻഷ്യൽ jωt5 ആയിത്തീരുന്നു തീർച്ചയായും ഇത് റിയൽ പ്രോഗ്രഷൻസ് ഉള്ള ഒരു ലീനിയർ സിസ്റ്റം ആണ് ഫോർസ്ഡ് റെസ്പോൺസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീനിയർ സിസ്റ്റത്തിന്റെ സൂപ്പർ പൊസിഷൻ ആണ് പ്രധാനം അതിനാൽ പ്രതികരണം ഇത് × j അത് × 1 എന്നിങ്ങിനെ ആയിരിക്കും അതിനുള്ള കാരണം ഒരു എക്സ്പോണൻഷ്യൽ ഇൻപുട്ടിനോടുള്ള ഫോർസ്ഡ് റെസ്പോൺസ് കണക്കാക്കാൻ വളരെ എളുപ്പമാണ് എന്നതാണ് എന്താണ് എക്സ്പോണൻഷ്യൽ ഇൻപുട്ട് ഇത് ചില സംഖ്യകളാൽ സ്കെയിൽ ചെയ്ത അതേ എക്സ്പോണൻഷ്യൽ ആണ് ആ നമ്പർ സർക്യൂട്ടിലെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇത് കണക്കുകൂട്ടാൻ എളുപ്പമാണ് എന്നതാണ് കാര്യം പക്ഷേ ശരിക്കും താൽപ്പര്യമുള്ളത് Vp×ωcosωt5 ന്റെ റെസ്പോൺസിൽ ആണ് അതാണ് നമ്മൾ ഇൻപുട്ടായി നൽകുന്ന സിഗ്നൽ ഇപ്പോൾ ലീനിയർ സിസ്റ്റത്തിന് റിയൽ കോഎഫീഷിയെന്റസ് മാത്രമേ ഉള്ളു കാരണം ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരേയൊരു ഫേസ് ആണ് √ 1 അതിനാൽ ഇതിലേക്ക് മടങ്ങാൻ നിങ്ങൾ വാസ്തവിക ഭാഗം എടുക്കും അതിനാൽ നിരവധി വിശകലനങ്ങൾ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വാസ്തവത്തിൽ കുറച്ച് സമയത്തിന് ശേഷം പ്രത്യേകിച്ചും ആശയവിനിമയ സംവിധാനങ്ങളിൽ ഇത് വളരെ സാധാരണമാണ് അതിനാൽ ഈ സങ്കീർണ്ണമായ എക്സ്പോണൻഷ്യൽ ജ്യാമിതിയിൽ മാത്രം സംസാരിക്കുക ഇവിടെ സൈൻ കോസ് ഒന്നും ഉണ്ടാകില്ല സത്യത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടെ കണക്കുകൂട്ടുന്നത് Vp ×cosωt 5 ന്റെ റെസ്പോൺസ് ആണ് അത് ലഭിക്കാനായി Vp എക്സ്പോണൻഷ്യൽ j ω t 5 ലേക്കുള്ള റെസ്പോൺസ് കണക്കുകൂട്ടുന്നതിലൂടെയും അതിന്റെ വാസ്തവിക ഭാഗം എടുക്കുന്നതിലൂടെയും ലഭിക്കും കാരണം ലീനിയർ സിസ്റ്റത്തിന് വാസ്തവിക ഭാഗം ഉണ്ട് ഞങ്ങൾക്ക് കോംപ്ലക്സ് കോയേഫിഷിയെന്റസ് ഉണ്ടായിരുന്നു ഈ j√ 1 റെസ്പോൺസിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ വെവ്വേറെ സൂക്ഷിക്കുന്നു നിങ്ങൾക്ക് അവയെ ഒരു എക്സ്പോണൻഷ്യലായി സംയോജിപ്പിക്കാൻ കഴിയും പക്ഷേ അവ വാസ്തവിക കോംപ്ലക്സ് ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു ഒരു പ്രത്യേക സർക്യൂട്ടിനായി ഞാൻ ഇവിടെ VS പ്രയോഗിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും അതിനു തുല്യമായ റെസ്പോൺസ് ലഭിക്കും അതിനാൽ Vs Vp എക്സ്പോണൻഷ്യൽ st ആയിരുന്നു എങ്കിൽ ഫോർസ്ഡ് റെസ്പോൺസ് എന്തായിരുന്നു ഇത് വ്യക്തമായും Vp എക്സ്പോണൻഷ്യൽ jωt 5 ഇതിനെ നമ്മൾ ഒന്ന് കൂടി മാറ്റി എഴുതിയാൽ ഇത് Vp എക്സ്പോണൻഷ്യൽ j5 എക്സ്പോണൻഷ്യൽ jωt ക്ക് തുല്യമാണ് അതിനാൽ ഈ ഭാഗം അങ്ങനെയാണ് അതിനാൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചു ചേർത്താൽ Vp എക്സ്പോണൻഷ്യൽ j5 1jω CR എക്സ്പോണൻഷ്യൽ jωt ഇതാണ് ലഭിക്കുന്നത് ഇത് Vp എക്സ്പോണൻഷ്യൽ jωt5 ആണ് ഇത് വാസ്തവികം ആണ് എക്സ്പോണൻഷ്യൽ തുക കോംപ്ലക്സ് സംഖ്യ കൊണ്ട് ഹരിക്കുന്നു Vp cos ω t 5 ഇതിന്റെ വാസ്തവിക ഭാഗം എന്താണ് ഇത് ചെയ്യാനുള്ള പല വഴികൾ എന്തൊക്കെയാണ് കോംപ്ലക്സ് സംഖ്യകൾ ഉൾപ്പെടുന്ന കണക്കുകൂട്ടലുകകൾ നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു കോംപ്ലക്സ് സംഖ്യകളുടെ രണ്ട് രൂപങ്ങളുണ്ട് ഇത് റെക്ടൻഗുലര് ഫോം എന്നറിയപ്പെടുന്നു അവിടെ നിങ്ങൾ കോംപ്ലക്സ് സംഖ്യയുടെ അല്ലെങ്കിൽ പോളാർ ഫോംന്റെ x y കോർഡിനേറ്റുകൾ നൽകുന്നു അത് ഇവിടെ ആംപ്ലിറ്യുടും ആർഗുമെന്റും ആണ് ഈ രണ്ട് പ്രാതിനിധ്യങ്ങളും ഉപയോഗപ്രദമാണെന്ന് വ്യക്തമായി പറയുന്നു കോംപ്ലക്സ് സംഖ്യകൾ കൂട്ടിച്ചേർക്കാൻ ഇത് സൌകര്യപ്രദമാണ് അതിനാൽ ഞാൻ ഇത് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് 1 1 jω C R ഉണ്ട് ഇതിന്റെ വ്യാപ്തി എന്താണ് ടാൻ ഇൻവെർസ് ω C R ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥ ഡിനോമിനേറ്ററും തുടർന്ന് ഒരു സങ്കീർണ്ണ സംഖ്യയും മറ്റും ലഭിക്കും അതിനാൽ ഒടുവിൽ ഇതിനോടുള്ള പ്രതികരണം ഒരു Vp √ 1 ω CR സ്ക്വയറും കോസ് ω t 5 ടാൻ ഇൻവേഴ്സ് ω C R ഇത് ഒരേ ആവൃത്തിയിലുള്ള സൈനസോയ്ഡ് ആണ് വ്യാപ്തി എത്രമാത്രം മാറും ഫേസ് എത്രമാത്രം മാറും എന്നത് സർക്യൂട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഫേസ് ചേഞ്ച് ആണ് ആംപ്ലിറ്യുഡിന്റെ അളവ് അതിനാൽ സർക്യൂട്ടിനെയും ആവൃത്തിയെയും വ്യക്തമായി ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ കപ്പാസിറ്ററുകളോ ഇൻഡക്ടറുകളോ ഉണ്ടെങ്കിൽ വ്യത്യസ്ത ആവൃത്തികളിൽ വ്യത്യസ്തമായി പെരുമാറുന്ന സർക്യൂട്ടുകളായ ഒരു ഫ്രീക്വൻസി സെലക്ടീവ് സർക്യൂട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും ω വളരെ ചെറുതാണെങ്കിൽ ഇൻപുട്ടിന് തുല്യമാണെന്നും വളരെ ചെറുതാണെങ്കിൽ അത് 1 R C ആയി താരതമ്യം ചെയ്യുമെന്നും ഈ പദപ്രയോഗത്തിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം അതിനാൽ ω C R ഒന്നിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ ഔട്ട്പുട്ട് വ്യാപ്തി Vp 1 നേക്കാൾ വളരെ കൂടുതലാണ് അത് ω ക്ക് വിപരീത അനുപാതത്തിലാണ് അതിനാൽ സൈനുസോയ്ഡൽ പഠനത്തെക്കുറിച്ചും പ്രതികരണത്തെക്കുറിച്ചും കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ നോക്കും ഇത് സൈനസോയ്ഡൽ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് അറിയപ്പെടുന്നു